ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് പ്രഭാഷണങ്ങളിൽ നമ്മൾ പ്രധാനപ്പെട്ട ചില സോഫ്റ്റ്വെയർ വികസന ജീവിതചക്രം മോഡലുകൾ പരിശോധിച്ചിരുന്നു നമ്മൾ വളരെ അവബോധജന്യമായ പ്രാചീന മോഡൽ കാണാൻ തുടങ്ങി പ്രാചീന വാട്ടർഫാൾ മോഡലും ഈ മോഡലിൻറെ ഡെറിവേറ്റീവുകളായ ഇറ്ററേറ്റിവ് വാട്ടർഫാൾ മോഡൽ വി മോഡൽ പ്രോട്ടോടൈപ്പിംഗ് മോഡൽ തുടങ്ങിയവ കണ്ടു വാട്ടർഫാൾ മോഡലിന്റെ പോരായ്മകൾ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ കാലക്രമേണ കുറച്ച് മോഡലുകൾ കൂടി വന്നു റാഡ് മോഡൽ ഇൻക്രിമെന്റൽ മോഡൽ ആവർത്തനത്തിനൊപ്പം വർദ്ധനവ് എവൊല്യൂഷനറി മോഡൽ എന്നിവയായിരുന്നു അവ കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഇൻക്രെമെന്റൽ മോഡൽ യിലേക്ക് നമ്മൾ നോക്കിയിരുന്നു ഇന്ന് നമ്മൾ ആദ്യം എവൊല്യൂഷനറി മോഡൽ പിന്നീട് അജിലെ ഡെവെലപ്മെന്റ് മോഡൽ നോക്കും ഇത് വാസ്തവത്തിൽ ആവർത്തനത്തോടുകൂടിയ ഒരു എവൊല്യൂഷനറി മോഡൽ യാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ആവർത്തനം എന്ന പദം ഉപയോഗിക്കുന്നത് നിലവിലുള്ള പ്രവർത്തനം വിതരണം ചെയ്തു വികസിപ്പിച്ചു കൂടാതെ ഉപഭോക്തൃ ഫീഡ്ബാക്കിനെ അടിസ്ഥാനമാക്കി ആവർത്തനം ചെയ്യുകയും പരിഷ്കരിക്കുകയും ചെയ്യുമ്പോൾ എന്ന് ഇനി നമുക്ക് ആവർത്തന മോഡൽ ഉപയോഗിച്ച് എവൊല്യൂഷനറി മോഡൽ നോക്കാം വാട്ടർഫാൾ അടിസ്ഥാനമാക്കിയുള്ള മോഡലിനെ ക്കുറിച്ച് നമ്മൾ പറഞ്ഞ ഒരു പ്രധാന പ്രശ്നം പദ്ധതിയുടെ തുടക്കത്തിൽ ആവശ്യകത നിർവചിക്കുകയും മരവിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് എന്നാൽ ഇവിടെ പ്രായോഗിക സാഹചര്യത്തെക്കുറിച്ച് ഇവിടെ നോക്കുക കാപ്പേഴ്സ് ജോൺസ് 8000 പ്രോജക്ടുകളിൽ ഗവേഷണം നടത്തി വികസനം ആരംഭിച്ചുകഴിഞ്ഞപ്പോൾ 40 ശതമാനം ആവശ്യകതകൾ എത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി നമ്മൾ ആവശ്യകതകൾ മരവിപ്പിച്ചിരുന്നുവെങ്കിൽ ആരംഭിക്കുക ഈ 40 ശതമാനം മാറ്റങ്ങൾ സംയോജിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം വാസ്തവത്തിൽ ഇത് ശരാശരി കണക്കാണ് 40 ശതമാനം ഇത് ചില പ്രോജക്റ്റുകൾക്ക് കൂടുതൽ ആകാം അതിനാൽ ആവശ്യകതയിലെ മാറ്റങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു മോഡൽ ആവശ്യമുണ്ട് വിവിധ കാരണങ്ങളാൽ ആവശ്യകതകൾ മാറുന്നു ഒരുപക്ഷേ കച്ചവടം വളരെ വേഗത്തിൽ മാറുന്നു ഒരു കച്ചവട നടപടിക്രമം അവർ നിർവചിച്ചുകഴിഞ്ഞാൽ ഒരു മാസത്തിനുശേഷം കച്ചവട നടപടിക്രമങ്ങൾ മാറാം അല്ലെങ്കിൽ സാങ്കേതികവിദ്യയിൽ മാറ്റം വന്നേക്കാം അല്ലെങ്കിൽ ആവശ്യമുള്ളത് അവർ മനസിലാക്കിയിട്ടില്ലാത്തതും മറ്റെന്തെങ്കിലും പറഞ്ഞതും ആയിരിക്കാം ഒരുപക്ഷേ അവർ എന്തെങ്കിലും പറയാൻ മറന്നിരിക്കാം അതിനാൽ വിവിധ കാരണങ്ങളാൽ ആവശ്യകതകൾ മാറുന്നു ആവശ്യകത മാറ്റങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു മോഡൽ നമ്മൾക്ക് ആവശ്യമാണ് ഓരോ തവണയും സിസ്റ്റത്തിന്റെ ചെറിയ ഭാഗം മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നതാണ് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു മാർഗം ഉപഭോക്താവിനെ മാറ്റാൻ സാധ്യതയുള്ളവർ അതിനെക്കുറിച്ച് ഉറപ്പില്ല ഈ ചെറിയ ജോലിക്കായി കുറച്ച് ആസൂത്രണം ചെയ്യുക കുറച്ച് രൂപകൽപ്പന ചെയ്യുക കുറച്ച് കോഡ് ചെയ്യുക ചെറിയ ഭാഗം പൂർത്തിയായിക്കഴിഞ്ഞാൽ ഉപഭോക്താവിന് അവന്റെ വിലയിരുത്തലിനും ഫീഡ്ബാക്കിനും നൽകുക ഇവിടെ ഉപഭോക്താവിനെ പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു അന്തിമ ഉപയോക്താവ് ടെസ്റ്റർ ഇന്റഗ്രേറ്റർ ടെക്നിക്കൽ റൈറ്റർ എന്നിവരെല്ലാം വികസനത്തിൽ പങ്കാളികളാണ് Glib എവൊല്യൂഷനറി മോഡലിൽ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് "ചെറിയ ഘട്ടങ്ങളിലൂടെ നടപ്പിലാക്കിയാൽ സങ്കീർണ്ണമായ ഒരു സംവിധാനം ഏറ്റവും വിജയകരമാകും പരാജയത്തെക്കുറിച്ചുള്ള മുമ്പത്തെ വിജയകരമായ ഒരു ഘട്ടത്തിലേക്ക്" പിൻവാങ്ങുക " ചില പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ആവശ്യമില്ലെങ്കിൽ കുറഞ്ഞത് നിങ്ങൾക്ക് മുമ്പത്തേതിലേക്ക് മടങ്ങാം സ്വീകാര്യമായ പതിപ്പ് തുടർന്ന് എല്ലാ വിഭവങ്ങളും എറിയുന്നതിനുമുമ്പ് യഥാർത്ഥ ലോകത്തിൽ നിന്ന് ഫീഡ്ബാക്ക് സ്വീകരിക്കുന്നതിനുള്ള അവസരം വികസിപ്പിക്കുക കൂടാതെ സാധ്യമായ പിശകുകൾ നിങ്ങൾക്ക് തിരുത്താനും കഴിയും " അതിനാൽ ടോം ഗ്ലിബിന്റെ അഭിപ്രായത്തിൽ ഈ ചുരുക്കം ചിലതിൽ അദ്ദേഹം ഇവിടെ പകർത്തുന്ന എവൊല്യൂഷനറി മോഡൽ വിവിധ കാരണങ്ങളാൽ ആവശ്യകതയിലെ മാറ്റങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള വളരെ പ്രതീക്ഷ നൽകുന്ന മോഡൽ വരകകൾ ആവർത്തനത്തോടുകൂടിയ എവൊല്യൂഷനറി മോഡൽ യെക്കുറിച്ച് ക്രെയ്ഗ് ലാർമാൻ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം "എവൊല്യൂഷനറി ആവർത്തന വികസനം സൂചിപ്പിക്കുന്നത് വികസന ആവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുമുമ്പായി ഒരു പ്രധാന അപ് ഫ്രണ്ട് സവിശേഷതകളിൽ പൂർണ്ണമായും നിർവചിക്കപ്പെട്ടിട്ടുള്ളതും" മരവിക്കുന്നതും "എന്നതിലുപരി ആവർത്തന വേളയിൽ ആവശ്യകതകൾ പദ്ധതി നിര്ണയിക്കൽ പരിഹാരങ്ങൾ എന്നിവ വികസിക്കുകയോ പരിഷ്കരിക്കുകയോ ചെയ്യുന്നു എന്നാണ് എവൊല്യൂഷനറി രീതികൾ പ്രവചനാതീതമായ കണ്ടെത്തലിന്റെയും പുതിയ ഉൽപ്പന്ന വികസനത്തിലെ മാറ്റത്തിന്റെയും ഒരു മോഡലുയുമായി പൊരുത്തപ്പെടുന്നു " അതിനാൽ ഒരു പ്രോജക്റ്റ് ആരംഭിക്കുമ്പോൾ ഒരു പ്രശ്നം ആവശ്യമുള്ളപ്പോൾ ദൃശ്യവൽക്കരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് ക്രെയ്ഗ് ലാർമാൻ പറയുന്നു നിങ്ങൾ ചെയ്യാൻ ആരംഭിക്കുമ്പോൾ മാത്രമേ തെറ്റാണെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയൂ ശരിക്കും ആവശ്യമുള്ളതും മറ്റും അതിനാൽ വാട്ടർഫാൾ മോഡലിന്റെ മോഡൽ യെക്കുറിച്ച് വളരെ നിർണ്ണായകമാണ് അവിടെ വികസനം ആരംഭിക്കുന്നതിന് മുമ്പ് ആവശ്യകതകൾ പൂർണ്ണമായും നിർവചിക്കുകയും മരവിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ എവൊല്യൂഷനറി മോഡൽ പോകാനുള്ള മാർഗ്ഗം അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അനുസൃതമായി ഇപ്പോൾ പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുന്ന മിക്ക വികസന മോഡലുകളും എവൊല്യൂഷനറി മോഡൽ ഏതെങ്കിലും രൂപത്തിൽ ഉപയോഗിക്കുന്നു നമുക്ക് എവൊല്യൂഷനറി മോഡൽ നോക്കാം ഇവിടെ സോഫ്റ്റ്വെയറിന്റെ പ്രധാന അനുപാതപ്രമാണങ്ങൾ ആദ്യം വികസിപ്പിച്ചെടുത്തു ഇത് ആവർത്തനങ്ങൾ എന്ന് വിളിക്കുന്ന കഴിവുകളുടെ വർദ്ധിച്ചുവരുന്ന തലങ്ങളിലേക്ക് പരിഷ്കരിക്കപ്പെടുന്നു ആവർത്തനത്തിൽ പുതിയ പ്രവർത്തനക്ഷമത ചേർക്കും കൂടാതെ ഉപയോക്തൃ ഫീഡ്ബാക്കിനെ അടിസ്ഥാനമാക്കി നിലവിലുള്ള പ്രവർത്തനങ്ങളും മാറ്റാൻ കഴിയും ഓരോ വികസനവും ഓരോ ആവർത്തനവും ഒരു ചെറിയ വാട്ടർഫാൾ മോഡൽ യിലൂടെ വികസിപ്പിച്ചെടുക്കുന്നു ഒരു ആവർത്തനത്തിന്റെ അവസാനം ചില കോഡ് സ്ഥിരമായി ഉപഭോക്താവിന് കൈമാറും വികസനത്തിന്റെ അവസാനം നിലവിലുള്ള പ്രവർത്തനങ്ങളിൽ മാറ്റം വന്നിരിക്കാം ഇത് ഒരു സാധ്യതയുണ്ട് പുതിയ പ്രവർത്തനങ്ങളോ ചേർത്തു ലഭിച്ചതെന്നും വേണ്ടി എന്നാൽ മാത്രമേ നിലവിലുള്ള പ്രവർത്തനങ്ങളോ സ്ഫുടം നടന്നോ എന്നും അത് അങ്ങനെ നിലവിലുള്ള പ്രവർത്തനങ്ങളോ അല്പം മാറ്റി ലഭിച്ചു എന്ന് പുതിയ പ്രവർത്തനങ്ങളോ ചേർത്തു സംഭവിക്കാം ചെയ്തിരിക്കുന്നു അതിനാൽ ഇവ ഒരു വർധനവാണ് അതിനാൽ ഇതിന് കുറച്ച് വർദ്ധനവ് ഉണ്ട് എന്നാൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വികസനവും എവൊല്യൂഷനറി വികസനവും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതാണ് ചോദ്യം കാരണം ഈ രണ്ട് മോഡലുകളിലും വർദ്ധനവും എവൊല്യൂഷനറിവും ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ സിസ്റ്റം വികസിപ്പിച്ചെടുക്കുന്ന ചെറിയ വർദ്ധനവ്കളുണ്ട് കൂടാതെ ഈ വർദ്ധനവുകൾ ഉപഭോക്തൃ സൈറ്റിൽ വിന്യസിക്കുകയും ഫീഡ്ബാക്ക് നേടുകയും ചെയ്യുന്നു എന്നാൽ ഞങ്ങളുടെ ആവശ്യകതയെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഇവ ചെറിയ വര്ധനവുകളായി ആസൂത്രണം ചെയ്യപ്പെട്ടതാണെന്നും ഞങ്ങളുടെ അവസാന ചർച്ചയിൽ നിന്ന് നിങ്ങൾ ഓർത്തിരിക്കാനിടയുള്ള പൂർണ്ണമായും വർദ്ധനവ് മോഡലിൽ ഞാൻ ഇവിടെ പരാമർശിക്കട്ടെ ഓരോ വികസിപ്പിച്ചെടുക്കുകയും വിന്യസിച്ച ഫീഡ്ബാക്ക് നേടുകയും മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യും എന്നാൽ വർദ്ധിച്ചുവരുന്ന ഒരു മോഡലിൽ എല്ലാ ആവശ്യകതകളും ആരംഭിക്കുന്നതിനായി സമാഹരിക്കപ്പെടുന്നു അതേസമയം എവൊല്യൂഷനറി മോഡലിൽ അത് അങ്ങനെയല്ല സിസ്റ്റത്തെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള ധാരണയ്ക്ക് ശേഷം നമ്മൾ എല്ലാ ആവശ്യകതകളും ശരിക്കും ഉൾക്കൊള്ളുന്നില്ല പക്ഷേ ചില പ്രധാന അല്ലെങ്കിൽ അപകടസാധ്യതയുള്ള അനുപാതപ്രമാണങ്ങൾ ഉപയോഗിച്ച് ആരംഭിക്കുക ഓരോ ആവർത്തനത്തിൻറെയും അവസാനം ഒരു പരീക്ഷിച്ച സംയോജിത നിർവ്വഹിക്കുന്ന സിസ്റ്റം വികസിപ്പിച്ചെടുക്കുകയും ഉപഭോക്തൃ സൈറ്റിൽ വിന്യസിക്കുകയും ചെയ്യുന്നു ഓരോ ആവർത്തനത്തിന്റെയും ദൈർഘ്യം സാധാരണയായി നിശ്ചയിച്ചിട്ടുണ്ട് ഇത് 2 ആഴ്ച മുതൽ 1 മാസം വരെ അല്ലെങ്കിൽ 1 5 മാസം 2 മുതൽ 6 ആഴ്ച വരെ ആയിരിക്കാം കൂടാതെ വികസനം പല ആവർത്തനങ്ങളിലൂടെയും മുന്നോട്ട് പോകുന്നു ഉദാഹരണത്തിന് 10 മുതൽ 15 ആവർത്തനങ്ങളിൽ ഒരു സിസ്റ്റം വികസിപ്പിച്ചേക്കാം എവൊല്യൂഷനറി മോഡൽ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ആവശ്യകതകൾ മരവിപ്പിച്ചിട്ടില്ല എന്നാൽ ഇവിടെ ഉപഭോക്താവിനെ പങ്കെടുപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും തുടർന്നുള്ള സംഭവവികാസങ്ങൾ അടിസ്ഥാനമാക്കി ഫീഡ്ബാക്ക് നൽകുകയും ഉപഭോക്തൃ ഫീഡ്ബാക്ക് കണക്കിലെടുക്കുകയും പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നു അതിനാൽ ഇവിടെ ആവശ്യകതകൾ ഒരു ആവർത്തനത്തിൽ പരിഷ്ക്കരിക്കുന്നു നിലവിലുള്ള ചില പ്രവർത്തനങ്ങളും പുതിയ പ്രവർത്തനങ്ങളും കൈമാറുന്നു ഇവിടെ തുടർച്ചയായ പതിപ്പുകൾ വികസിപ്പിക്കുകയും ചെലവ് ഉപഭോക്തൃ സൈറ്റിൽ വിന്യസിക്കുകയും ചെയ്യുന്നു ഓരോ പതിപ്പിനും ഉപഭോക്താവിന് ഉപയോഗിക്കാനും ഫീഡ്ബാക്ക് നൽകാനും കഴിയുന്ന ചില ഉപയോഗപ്രദമായ ജോലികൾ ചെയ്യാൻ കഴിവുണ്ട് കൂടാതെ ഒരു പുതിയ പതിപ്പിൽ ഒരു പുതിയ പ്രവർത്തനക്ഷമത ഉൾപ്പെടുത്താനും നിലവിലുള്ള പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്താനും പരിഷ്കരിക്കാനും കഴിയും തുടക്കത്തിൽ പരുക്കൻ ആവശ്യകതകൾ സിസ്റ്റത്തിന് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസിലാക്കുക തുടർന്ന് ആവർത്തനങ്ങളുണ്ട് ആവർത്തനങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്നു ഓരോ ആവർത്തനത്തിലും ഒരു ചെറിയ വാട്ടർഫാൾ മുണ്ട് അവിടെ ഒരു ചെറിയ ഭാഗം വ്യക്തമാക്കേണ്ടതുണ്ട് ഉപഭോക്തൃ സൈറ്റിൽ വികസിപ്പിക്കുക സാധൂകരിക്കുക വിന്യസിക്കുക പ്രാരംഭ പതിപ്പ് ആരംഭിക്കുന്നതിന് ഫീഡ്ബാക്ക് ലഭിക്കും നിരവധി ഇടയിലുള പതിപ്പുകൾ ഉണ്ട് തുടർന്ന് അവസാന പതിപ്പ് ഉപഭോക്തൃ സൈറ്റിൽ വിന്യസിക്കുന്നു എവൊല്യൂഷനറി മോഡലിന് ഉപഭോക്താവിന് സിസ്റ്റം ഉപയോഗിക്കാനും ഫീഡ്ബാക്ക് നൽകാനും കഴിയും അതുകൊണ്ടുഎവൊല്യൂഷനറി മോഡൽ ആവശ്യകത കൃത്യമായ ആവശ്യകത കണ്ടെത്താൻ അതു ഉപഭോക്താവിന് രക്ഷപ്പെടുന്നു ഒരിക്കൽ ഉപഭോക്തൃ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ യോജിക്കുന്നു നല്ലത് ഇവ ഓരോ തവണയും പരീക്ഷിക്കപ്പെടുന്നതിനാൽ ഓരോ വർദ്ധനവ് പരിശോധിക്കുകയും ഉപഭോക്തൃ സൈറ്റിൽ വിന്യസിക്കുകയും ചെയ്യുന്നു അതിനാൽ ഒന്നിലധികം ടെസ്റ്റ് പ്രവർത്തനങ്ങൾ സംയോജന പ്രവർത്തനങ്ങൾ നടക്കുന്നു അതിനാൽ ബഗുകൾ അടങ്ങിയിരിക്കാനുള്ള സാധ്യത കുറവാണ് കാരണം ഇവ സമഗ്രമായി പരിശോധിക്കുന്നു ഓരോ തവണയും ഡവലപ്പർമാർ ഒരു ചെറിയ ഭാഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ ഇത് സങ്കീർണ്ണത കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നു മാറുന്ന ആവശ്യകതകൾ നന്നായി കൈകാര്യം ചെയ്യുക ഉപഭോക്തൃ ഫീഡ്ബാക്കുകൾ നേടുകയും സംയോജിപ്പിക്കുകയും ചെയ്യുന്നു ഉപഭോക്താവിന് വേഗത്തിൽ പതിപ്പ് ലഭിക്കും സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിൽ അവർക്ക് പരിശീലനം ലഭിക്കും ബഗുകളുണ്ടെങ്കിൽ അടുത്ത ആവർത്തനത്തിൽ ഇവ വേഗത്തിൽ പരിഹരിക്കപ്പെടും പക്ഷേ എവൊല്യൂഷനറി മോഡലിൽ ചില പ്രശ്നങ്ങളുണ്ട് എവൊല്യൂഷനറി മോഡൽ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് ബോധവാന്മാരാകാം ഇത് വളരെയധികം ഗുണങ്ങളാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇവിടെ പ്രക്രിയ പ്രവചനാതീതമാണ് അത് ഓരോ തവണയും നമ്മൾ ഒരു വർദ്ധനവ് വിന്യാസം വികസിപ്പിക്കുകയും ഉപഭോക്തൃ ഫീഡ്ബാക്ക് നേടുകയും ചെയ്യുന്നു ഇപ്പോൾ ഉപഭോക്താവ് ആവശ്യകതകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മാറ്റങ്ങൾ വരുത്തുന്നത് തുടരുക അതിനാൽ പ്രക്രിയ പ്രവചനാതീതമാണ് ഇത് എപ്പോൾ പൂർത്തിയാകുമെന്ന് നമ്മൾക്ക് അറിയില്ല കാരണം ഉപഭോക്താവ് ആവശ്യകതകൾ മാറ്റിക്കൊണ്ടിരിക്കും കൂടാതെ നമ്മൾക്ക് ഒരു ദീർഘകാല പദ്ധതി ഉണ്ടെങ്കിൽ മനുഷ്യശക്തി വിന്യസിക്കുക അവരെ ചേർക്കുകയും ചെയ്യുക ജോലി നിരീക്ഷിക്കുകയും സമയക്രമീകരണം ചെയ്യുക തുടങ്ങിയവ എളുപ്പമാകും ഇവിടെ ഇവയെല്ലാം പ്രശ്നകരമാണ് സിസ്റ്റം മോശമായി ഘടനാപരമാണ് കാരണം മൊത്തത്തിലുള്ള രൂപകൽപ്പനകളില്ലാത്തതിനാൽ അതിന്റെ ചെറിയ ഭാഗങ്ങൾ രൂപകൽപ്പന ചെയ്ത് സംയോജിപ്പിച്ചിരിക്കുന്നു കോഡ് തുടർച്ചയായി മാറ്റുന്നതിനാൽ കോഡ് ഘടന അധപതിക്കുകയും ഓരോ തവണയും ഉപഭോക്താവ് മാറ്റങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ സിസ്റ്റം അന്തിമ പതിപ്പിലേക്ക് ഒത്തുചേരുകയും ചെയ്യില്ല ഇപ്പോൾ നമുക്ക് സ്പൈറൽ മോഡൽ നോക്കാം സ്പൈറൽ മോഡൽ യുടെ പ്രധാന സവിശേഷത അപകടസാധ്യത കൈകാര്യം ചെയ്യലാണ് മോഡൽ സ്പൈറൽ ത്തെ പിന്തുടരുന്ന സ്പൈറൽ ഡയഗ്രം നോക്കൂ നമ്മൾ അത് കാണും ബോഹമാണ് ഇത് നിർദ്ദേശിച്ചത് ഇവിടെ സ്പൈറൽ ത്തിന്റെ ഓരോ ലൂപ്പിനെയും ഒരു ഘട്ടം എന്ന് വിളിക്കുന്നു കൂടാതെ സിസ്റ്റം പല ഘട്ടങ്ങളിലായി വികസിക്കുകയും ചെയ്യുന്നു നിശ്ചിത എണ്ണം ഘട്ടങ്ങളൊന്നുമില്ല സിസ്റ്റം വികസിക്കുന്നതിനനുസരിച്ച് കൂടുതൽ ഘട്ടങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു അന്തിമ വിതരണം നടക്കുന്നതുവരെ ഈ സ്പൈററിൽ നിരവധി ലൂപ്പുകൾ ഉണ്ടാകാം എന്നാൽ സ്പൈറലിൻറെ ഓരോ ലൂപ്പായ ഓരോ ഘട്ടത്തിലും ഒരു സവിശേഷത തിരിച്ചറിയുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നു സ്പൈറൽ മോഡൽ യിൽ ഇവിടെ നാല് ചതുർത്ഥംശ്യങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ ആ ഘട്ടത്തിൽ ചെയ്യേണ്ട ആദ്യത്തെ ചതുർത്ഥംശ്യം തിരിച്ചറിയുകയും പിന്നീട് എന്തെങ്കിലും അനിശ്ചിതത്വങ്ങൾ ഉണ്ടെങ്കിൽ തിരിച്ചറിയുകയും ചെയ്യുന്നു സാങ്കേതിക അനിശ്ചിതത്വങ്ങളോ ഉപയോക്തൃ ആവശ്യകതകളോ വ്യക്തമല്ല അപകടസാധ്യത പരിഹരിക്കുന്നതിനായി ഒരു പ്രോട്ടോടൈപ്പ് വികസിപ്പിച്ചെടുക്കുകയും ഉപഭോക്താവിന് അവന്റെ വിലയിരുത്തലിനായി നൽകിയ അടുത്ത ആവർത്തനം വികസിപ്പിക്കുകയും തുടർന്ന് മറ്റൊരു സവിശേഷത ഏറ്റെടുക്കുകയും ചെയ്യുന്നു അതിനാൽ ഓരോ ആവർത്തനത്തിലും ഒന്നോ അതിലധികമോ സവിശേഷതകൾ ഏറ്റെടുക്കുന്നു അപകടസാധ്യത പരിഹരിച്ച് അടുത്ത വികസനം സംഭവിക്കുകയും ഉപഭോക്തൃ ഫീഡ്ബാക്ക് നൽകുകയും ചെയ്യുന്നു ഇവിടെ കാണാനാകുന്നതുപോലെ സാങ്കേതികവിദ്യ അറിയപ്പെടാത്ത വളരെ അപകടകരമായ പ്രോജക്റ്റുകൾക്ക് ഈ മോഡൽ അനുയോജ്യമാണ് ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നത് ഇതാദ്യമായാണ് സാങ്കേതികവിദ്യ ഉറപ്പില്ല അങ്ങനെ അതിനാൽ ഓരോ തവണയും ചില സവിശേഷതകൾ ഏറ്റവും അപകടകരമായ സവിശേഷത തിരിച്ചറിയുന്നു അപകടസാധ്യത പരിഹരിച്ചു ഇത് വികസിപ്പിക്കുകയും ഉപഭോക്തൃ ഫീഡ്ബാക്കിനായി നൽകുകയും അടുത്ത സവിശേഷതകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നു ഇവിടെ പ്രോജക്റ്റ് വിജയകരമായി പൂർത്തിയാക്കുന്നതിന് തടസ്സമാകുന്ന സാഹചര്യത്തിന്റെ ഏതെങ്കിലും പ്രതികൂല സാഹചര്യമാണ് അപകടസാധ്യത ഇത് സാങ്കേതിക പ്രശ്നങ്ങൾ വ്യക്തമല്ല ഉപഭോക്താവിന് ആവശ്യമുള്ളത് വ്യക്തമായി വ്യക്തമാക്കാൻ കഴിയാത്തതാകാം അപകടസാധ്യത മറികടക്കാൻ ഇവിടെ ഒരു പ്രോട്ടോടൈപ്പ് വികസിപ്പിച്ചെടുക്കുന്നു ആവശ്യകതകൾ അനുചിതമാണെന്ന അപകടസാധ്യത ഉണ്ടെങ്കിൽ ഉപഭോക്താവിന് പ്രോട്ടോടൈപ്പ് വികസിപ്പിച്ചെടുക്കുന്നു അതിലൂടെ ആവശ്യമുള്ളത് കൂടുതൽ വ്യക്തമായി പറയാൻ കഴിയും മൂന്നാമത്തെ ചതുർതാംശ്യം വികസിപ്പിക്കുകയും സാധൂകരിക്കുകയും ചെയ്യുന്നു കൂടാതെ നാലാമത്തെ ചതുർതാംശ്യം ഉപഭോക്താവിന് വികസിത പരിഹാരം ഫീഡ്ബാക്കിനും അടുത്ത ആവർത്തനത്തിനുള്ള പദ്ധതിക്കും നൽകുന്നു സ്പൈറൽനു ചുറ്റുമുള്ള ഓരോ ആവർത്തനത്തിലും സോഫ്റ്റ്വെയറിന്റെ കൂടുതൽ കൂടുതൽ പൂർണ്ണമായ പതിപ്പുകൾ നിർമ്മിക്കുന്നത് നമുക്ക് കാണാം സ്പൈറൽ മോഡൽ മെറ്റാ മോഡൽ എന്നും വിളിക്കുന്നു കാരണം സ്പൈറൽ ിന്റെ ഒരൊറ്റ ലൂപ്പ് ഒരു വാട്ടർഫാൾ മോഡൽ യാണ് ആവർത്തനങ്ങളുണ്ട് അതിനാൽ ഇത് എവൊല്യൂഷനറി പരവും വർദ്ധനവുമുള്ള മോഡലുകൾ ഉൾക്കൊള്ളുന്നു ഇത് പ്രോട്ടോടൈപ്പിംഗ് ഉപയോഗിക്കുന്നു വാട്ടർഫാൾ മോഡലിന്റെ പടിപടിയായുള്ള സമീപനം നിലനിർത്തുന്നു അതിനാൽ ഈ മോഡൽ യെ നശിപ്പിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും മോഡൽ ആയി ഉപയോഗിക്കാം എന്നാൽ വളരെ അപകടസാധ്യതയുള്ള പ്രോജക്റ്റുകൾക്കും വലിയ പ്രോജക്റ്റുകൾക്കും സ്പൈറൽ മോഡൽ അനുയോജ്യമാണെന്ന് ഓർമ്മിക്കേണ്ടതുണ്ട് ഇപ്പോൾ നമുക്ക് അജിലെ മോഡൽ നോക്കാം നിഘണ്ടുവിലെ ചടുലതയുടെ അർത്ഥം നോക്കുകയാണെങ്കിൽ ചാപല്യം എന്നാൽ എളുപ്പത്തിൽ നീങ്ങുന്നു വളരെ വേഗതയുള്ള വേഗതയേറിയ സജീവമായ സോഫ്റ്റ്വെയർ പ്രോസസ്സ് തുടങ്ങിയവ നിഘണ്ടുവിലെ അജിലെ മോഡൽ വിശദീകരണമായി നൽകിയിരിക്കുന്ന ചില പദങ്ങളാണിവ എന്നാൽ ചടുലത എന്നാൽ വളരെ വേഗതയുള്ളതാണ് അതിനാൽ മറ്റ് വികസന മോഡൽകളിൽ സംഭവിക്കുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ സമൃദ്ധമായ മോഡൽ ക്ക് വികസനം വളരെ വേഗത്തിൽ സംഭവിക്കണം എന്നാൽ ഇത് എങ്ങനെ വളരെ വേഗത്തിൽ വികസിപ്പിച്ചെടുക്കുന്നു അവന്റെ ചാപല്യം എങ്ങനെ നേടി ചാപല്യം കൈവരിക്കുന്നതിനാൽ പ്രക്രിയ മാറ്റുന്നതിന് ഇവിടെ ധാരാളം വഴക്കങ്ങൾ നൽകുന്നു അതായത് ചില പ്രോജക്റ്റിന് ചില പ്രത്യേക പ്രവർത്തനങ്ങൾ നടത്താൻ ചില പ്രവർത്തനങ്ങൾ ആവശ്യമാണെങ്കിൽ അത് ചെയ്യും മറ്റൊരു പ്രോജക്റ്റിന് ഇത് ആവശ്യമില്ലെങ്കിൽ മോഡൽ വളരെ വഴക്കമുള്ളതിനാൽ ഇത് എളുപ്പത്തിൽ ഒഴിവാക്കാനാകും വാട്ടർഫാൾ മോഡലിന്റെ മോഡൽ യിൽ നിന്ന് വ്യത്യസ്തമായി അവിടെ മുൻനിശ്ചയിച്ച പ്രവർത്തനങ്ങളും ഘട്ടങ്ങളും ഉണ്ട് ഇവിടെ നമുക്ക് പ്രോസസ് പ്രോജക്റ്റിലേക്ക് തിരുത്തുവാൻ കഴിയും എന്നാൽ കൂടുതൽ പ്രധാനം സമയം പാഴാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കാനാകും അത് വളരെ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് സമയം പാഴാക്കുന്നത് ഒഴിവാക്കണം സമയം പാഴാക്കുന്നത് എന്താണ് ഒരുപക്ഷേ നമ്മൾ വളരെ വിശദമായ രേഖകൾ തയ്യാറാക്കുകയാണെങ്കിൽ ഇറ്ററേറ്റിവ് വാട്ടർഫാൾ മോഡലിലിൽ വികസന ശ്രമത്തിന്റെ 50 ശതമാനവും രേഖകൾ തയ്യാറാക്കുന്നതിനുള്ള സമയവും പോകുന്നുവെന്ന് നമ്മൾ പരാമർശിക്കുന്നു ഈ വിശാലമായ രേഖകൾ തയ്യാറാക്കുന്നതിൽ നിന്നും അത് ഒഴിവാകുകയും ധാരാളം സമയം ലാഭിക്കുകയും ചെയ്യുന്നുവെന്ന് ഇവിടെ കാണാം 90 കളുടെ മധ്യത്തിൽ ഇത് നിർദ്ദേശിക്കപ്പെട്ടു പ്രധാനമായും വാട്ടർഫാൾ മോഡലിന്റെ പോരായ്മകളെ മറികടക്കാൻ മാറ്റ അഭ്യർത്ഥനകൾ കൈകാര്യം ചെയ്യുക എന്നതാണ് ഒരു പ്രധാന സ്വഭാവം മാറ്റ അഭ്യർത്ഥനകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു നല്ല മാർഗമാണ് എവൊല്യൂഷനറി മോഡൽ യെന്ന് നമ്മൾ കണ്ടു അജിലെ മോഡൽ കൾ എവൊല്യൂഷനറി വികസനം ഉൾക്കൊള്ളുന്നു എവൊല്യൂഷനറി പരവും വർദ്ധനവുമുള്ള വികസനം ഇവിടെ ആവശ്യകതകൾ ചെറിയ വർദ്ധനവ് ഭാഗങ്ങളായി വിഘടിപ്പിക്കുകയും വികസനം വർദ്ധിക്കുകയും ചെയ്യുന്നു ഇവിടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് വിശാലമായ രേഖകൾ ഹാജരാക്കുന്നതിനുപകരം വ്യക്തികൾ ഇവിടെ പ്രക്രിയ കർശനമായി പിന്തുടരുകയും അവർ പരസ്പരം ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നതിനേക്കാൾ പരസ്പരം ഇടപഴകുകയും ചെയ്യുന്നു ആശയവിനിമയത്തിലൂടെ അവർ പരസ്പരം വിശദീകരിക്കുന്നു ഒരു വാട്ടർഫാൾ മോഡലിന്റെ മോഡൽ യിൽ വികസനത്തിന്റെ പുരോഗതി അളക്കുന്നത് ഹാജരാക്കിയ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ആവശ്യകത രേഖ പൂർത്തിയായിട്ടുണ്ടോ ഡിസൈൻ പ്രമാണം പൂർത്തിയായി വിശദമായ രൂപകൽപ്പന പൂർത്തിയായി കോഡ് പ്രമാണം പൂർത്തിയായി ടെസ്റ്റ് പ്രമാണം പൂർത്തിയായി എന്നാൽ ഇവിടെ പുരോഗതി അളക്കുന്നത് വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിന്റെ അടിസ്ഥാനത്തിലാണ് എത്ര ആവർത്തനങ്ങൾ പൂർത്തിയായി ഓരോ ആവർത്തനവും ചില പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ഉപഭോക്തൃ സൈറ്റിൽ വിന്യസിക്കുന്നു ഇവിടെ ഉപഭോക്താവിനെ വികസനത്തിൽ പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു പ്രോജക്റ്റിന്റെ തുടക്കത്തിൽ ഒരു കരാർ ഒപ്പിടുന്നതിനുപകരം വികസനവുമായി സഹകരിക്കാൻ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു ഇവിടെ മാറ്റങ്ങൾ സംഭവിക്കുമെന്നും ആവശ്യകതകൾ മാറുമെന്നും അവ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും അനുമാനിക്കുന്നു ഒരു ദീർഘകാല പദ്ധതി തയ്യാറാക്കി ആ പദ്ധതി പിന്തുടരുന്നതിനുപകരം ഇവിടെ മാറ്റങ്ങൾ സ്വാഗതാർഹമാണ് ആ മാറ്റങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നത് ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് അജിലെ രീതിശാസ്ത്രം ഒരു കുട പദമാണ് അങ്ങേയറ്റത്തെ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ എക്സ്പി സ്ക്രം ക്രിസ്റ്റൽ ഡിഎസ്ഡിഎം ലീൻ തുടങ്ങിയവ പോലുള്ള നിരവധി പ്രോസസ്സ് വികസന പ്രോസസ്സുകൾ ഉണ്ട് അവയിൽ ഓരോന്നിനും സമർത്ഥമായ മോഡൽ യുടെ സവിശേഷതകളുണ്ട് എന്നാൽ പിന്നീട് അവ ചില വഴികളിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഓരോരുത്തർക്കും അവരുടേതായ ശ്രദ്ധയുണ്ട് പുതിയ നിബന്ധനകളും പുതിയ പ്രവർത്തനങ്ങളും മറ്റും നിങ്ങൾ കാണുന്നതിനാൽ അവയിൽ ഓരോന്നും അവതരിപ്പിച്ച പുതിയ കാര്യങ്ങൾ എന്നാൽ അവസാന സ്ലൈഡിൽ നമ്മൾ ചർച്ച ചെയ്ത അജിലെ രീതിശാസ്ത്രത്തിന്റെ സവിശേഷതകൾ അവയെല്ലാം ഉണ്ട് വർദ്ധനവുകളിലൂടെ യുള്ള വികസനം ഉപഭോക്താവുമായുള്ള ഇടപെടൽ ഡവലപ്പർമാർക്കിടയിൽ കുറഞ്ഞ പ്രമാണം ഇടപെടൽ സംയോജിപ്പിക്കുന്നതിലും പരിശോധിക്കുന്നതിലും അല്ലെങ്കിൽ ഓരോ ആവർത്തനത്തിലും പരിശോധന ഉപഭോക്താവിനെ വിന്യസിക്കൽ ഫീഡ്ബാക്കും മറ്റും ഈ പ്രഭാഷണത്തിനായി അവസാനം എത്തി അടുത്ത പ്രഭാഷണത്തിൽ അജിലെ വികസന മോഡൽ യെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും